ഈ മൊഡ്യൂൾ മൊമെന്റുകളുടെ രീതിയെക്കുറിച്ചായിരിക്കും ഇത് നമ്മൾ ഇന്റഗ്രൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്ന രീതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഇതുവരെ ഇന്റഗ്രൽ സമവാക്യങ്ങളുടെ ഒരു ലളിതമായ ഉദാഹരണം നമ്മൾ കണ്ടു അതായത് ചാർജ് ഉപരിതല ചാർജുള്ള വയറിലെ വോളിയം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ രൂപപ്പെടുത്തിയ രണ്ടാമത്തെ കാര്യം ഉപരിതല അവിഭാജ്യ സമവാക്യമാണ് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഇപ്പോൾ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഏകദേശം പിന്തുടരുന്ന ലേഔട്ട് ഇത് അൽപ്പം ദൈർഘ്യമേറിയ മൊഡ്യൂളായിരിക്കും നമ്മൾ നിമിഷങ്ങളുടെ രീതിയിലേക്ക് എത്തുന്നതിനുമുമ്പ് നമ്മൾ ചില ഗണിത പ്രചോദനവും ആശയത്തിന്റെ സാമാന്യവൽക്കരണവും ഗണിതശാസ്ത്രപരമായി നോക്കും തുടർന്ന് നമ്മൾ ഇത് രണ്ടിലേക്ക് പ്രയോഗിക്കും ഇവ ശരിയാണ് അതിനാൽ നിങ്ങൾ പൊതുവായ സിദ്ധാന്തം പഠിക്കുക തുടർന്ന് നമ്മൾ രണ്ട് പ്രശ്നങ്ങൾ പ്രയോഗിച്ചു അതിനാൽ അത് സമീപനമായിരിക്കും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതുവരെ പഠിച്ചതെല്ലാം ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ ഇന്റഗ്രൽ സമവാക്യങ്ങളിൽ തുടങ്ങി ഗ്രീനിന്റെ ഫംഗ്ഷനുകൾ Green's function സംയോജനത്തിന്റെ സംഖ്യാ സാങ്കേതികതകൾ എല്ലാം ഈ മൊഡ്യൂളിൽ ഒത്തുചേരുന്നു അതിനാൽ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഇവിടെയുള്ള പ്രചോദനം നോക്കാം അതിനാൽ നമ്മൾ കൂടുതൽ ആരംഭിച്ച യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമുക്ക് മടങ്ങാം വിദ്യാർത്ഥി സമഗ്ര സമവാക്യങ്ങളെ പ്രചോദിപ്പിക്കുന്നു അതിനാൽ ഈ സമഗ്ര സമവാക്യം എല്ലാവരും ഓർക്കുന്നു അതിനാൽ നമുക്ക് y ദിശയിൽ വലതുവശത്ത് വയർ ഉണ്ടായിരുന്നു അത് അങ്ങനെയായിരുന്നു ഇവിടെയുള്ള സ്ഥലത്ത് ഏത് സമയത്തും സാധ്യതകൾ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിച്ചു അതാണ് പ്രശ്നം കൂടാതെ ഈ സിലിണ്ടർ സ്ഥിരമായ വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ എല്ലാം സ്ഥിരമായ വോൾട്ടേജിലായിരുന്നു അങ്ങനെയാണ് നമ്മൾ പ്രശ്നം സജ്ജമാക്കിയത് അത് പരിഹരിക്കുന്നതിൽ നമുക്ക് രണ്ട് ഘട്ടങ്ങൾ ശരിയായി അതിനാൽ ഈ പ്രശ്നത്തിൽ ആദ്യം എന്താണ് അജ്ഞാതമായത് വിദ്യാർത്ഥി ചാർജ് ചാർജ് വിതരണം ρ അതിനാൽ ρ എന്നത് അജ്ഞാതവും ആയിരുന്നു അതിനാൽ ആദ്യ പടി rho കണ്ടെത്തുകയും ചെയ്യുക എന്നതായിരുന്നു നമ്മൾ എന്താണ് ചെയ്തത് ലൈൻ സെഗ്മെന്റ് ഡിസ്ക്രിറ്റൈസ് ചെയ്യുക എന്നതായിരുന്നു ആദ്യ ഘട്ടം തുടർന്ന് നമ്മൾ അത് a ൽ ഉള്ളതുപോലെ പ്രകടിപ്പിക്കുന്നു വിദ്യാർത്ഥി അടിസ്ഥാനം അടിസ്ഥാന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ലളിതമായ പൾസ് ബേസിസ് ഫംഗ്ഷൻ ശരിയായി ഉപയോഗിക്കുന്നു നമ്മൾ ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ ഇന്റഗ്രാൻഡിനുളളിലെ എല്ലാം നമുക്ക് അറിയാമായിരുന്നു എനിക്ക് ഇത് മൂല്യനിർണ്ണയം നടത്താനും വി എവിടെയും ശരിയാണെന്ന് കണ്ടെത്താനും കഴിയും നമ്മൾ ചെയ്ത പൊതു സമീപനം അതായിരുന്നു അതിനാൽ നമ്മൾ ഇതുവരെ ചെയ്ത ഈ ഫോർമുലേഷൻ നോക്കുമ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു സമവാക്യം എടുക്കണമെങ്കിൽ ഇത് നമുക്ക് N×N സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം നൽകിയെന്ന് ഓർക്കുക അത് നമ്മൾ ρ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് ആ സമവാക്യങ്ങളിൽ ഒന്ന് നോക്കാം അതിനാൽ mth സെഗ്മെന്റും അതിന്റെ മധ്യഭാഗവും ശരിയാണെന്ന് പറയുന്നതിന് അനുയോജ്യമായ സമവാക്യങ്ങളിലൊന്ന് എടുക്കാം അതിനാൽ ഇത് നമുക്ക് കുറച്ച് rm പറയാം അപ്പോൾ ഈ N × N എന്നതിലെ mth സമവാക്യമായി ഈ സമവാക്യം എന്താണ് വായിച്ചത് അതിനാൽ ഇടത് വശം ശരിയായിരിക്കും 4πε നമുക്ക് അത് വലതുവശത്ത് സൂക്ഷിക്കാം അതിനാൽ V ഉണ്ട് അത് ഞാൻ എന്റെ അറിയപ്പെടുന്ന വ്യവസ്ഥ നടപ്പിലാക്കുന്ന പോയിന്റ് 14πε ന് തുല്യമാണ് ചെറിയ n ന് മീതെ 1 മുതൽ m മൂലധനം N ന് തുല്യമായ ഒരു സംഗ്രഹം ഉണ്ടാകാൻ പോകുന്നു ക്ഷമിക്കണം ഇവിടെ ഒരു കൂട്ടം കാര്യങ്ങൾ ഉണ്ടാകും പൾസ് ബേസിസ് ഫംഗ്ഷൻ ഞാൻ അവയെ bn എന്ന് വിളിക്കുകയാണെങ്കിൽ bn നമുക്ക് അതിനെ r′ എന്ന് വിളിക്കാം ഇത് ഒരു dr′ ന് മേൽ ചില അവിഭാജ്യഘടകമായിരിക്കും അതായത് നമ്മൾ അത് എങ്ങനെ ചെയ്തു ഉള്ളിലുള്ളത് പ്രശ്നമല്ല ഈ സമവാക്യത്തിൽ നമ്മൾ പരിഹരിച്ച രീതിയാണ് ഇടതുവശത്ത് ഈ V വലതുവശത്ത് നൽകിയിരിക്കുന്ന 1 വോൾട്ടിൽ ഉറപ്പിക്കണമെന്ന് നമുക്കറിയാം അതിനാൽ ഈ അടിസ്ഥാന പ്രവർത്തനങ്ങളുടെ ഗുണകങ്ങൾ ശരിയാണെന്ന് നമ്മൾ കണ്ടെത്തി അത് ρ പ്രകടിപ്പിക്കാൻ നമ്മളെ അനുവദിച്ചു ഇത് നമ്മൾ ഇതിനകം ചെയ്തതിന്റെയും ഇതുവരെ കണ്ടതിന്റെയും ഒരു അവലോകനം അല്ലെങ്കിൽ സംഗ്രഹം മാത്രമാണ് അതിനാൽ ഇപ്പോൾ ഇത് കണ്ടതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഓർമ്മ പുതുക്കി കൃത്യതയുടെ കാര്യത്തിൽ ഈ സമീപനത്തിലെ ചില പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു കൃത്യത സെല്ലുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു സെല്ലുകളുടെ എണ്ണം കൂടുന്തോറും പരിഹാര കൃത്യത ശരിയാണ് അതിനാൽ തീർച്ചയായും അത് മതിയാകും സമീപനത്തിന് ധാരാളം N ആവശ്യമാണ് അത് ഗ്രാഫിക്കൽ ഫലങ്ങളിലും നമ്മൾ കണ്ടു N ന്റെ ഒരു വലിയ സംഖ്യ ഞാൻ പരിഹരിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റേതെങ്കിലും പ്രശ്നമുണ്ടോ വിദ്യാർത്ഥി അടിസ്ഥാനം അടിസ്ഥാനം അതെ അതിനാൽ അടിസ്ഥാന ഫംഗ്ഷനുകൾ ഒരു പൾസ് ബേസിസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പോലെ അയഥാർത്ഥമാകാം എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ത്രികോണ ബേസിസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കാം അതിനാൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ മികച്ചതായിരിക്കും അതിനാൽ എനിക്ക് വളരെ നല്ല അടിസ്ഥാന ഫംഗ്ഷൻ ലഭിച്ചുവെന്ന് നമുക്ക് പറയാം ഇവിടെ പ്രശ്നമായേക്കാവുന്ന മറ്റെന്തെങ്കിലും N ന്റെ വലിയ മൂല്യം ഞാൻ തിരഞ്ഞെടുത്തു അതിനാൽ സൂചന ഇടത് വശമാണ് വോൾട്ടേജ് നൽകിയിട്ടുള്ള പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥി ഉപരിതലം സിലിണ്ടറിന്റെ ഉപരിതലത്തിന്റെ വലതുഭാഗത്ത് ഈ മെറ്റാലിക് തികവുറ്റ വൈദ്യുത പ്രവാഹം ഈ വസ്തുവായി നൽകിയിരിക്കുന്നു അതിനാൽ ഈ സിലിണ്ടറിലെ ഓരോ പോയിന്റിനും സ്ഥിരമായ വോൾട്ടേജ് ഉണ്ട് നാമെല്ലാവരും എവിടെയാണ് ഇത് നടപ്പിലാക്കുന്നത് നമ്മൾ കേന്ദ്രത്തോടൊപ്പമാണ് എന്നാൽ വ്യതിരിക്തമായ പോയിന്റുകളിലോ എത്ര വ്യതിരിക്തമായ പോയിന്റുകളിലോ ആണ് വിദ്യാർഥി എൻ എൻ ഡിസ്ക്രീറ്റ് പോയിന്റുകൾ ഇത് ചെയ്യുന്നതിലൂടെ rm rm1 എന്നിവയ്ക്കിടയിലുള്ള വോൾട്ടേജ് ഇപ്പോഴും 1 വോൾട്ട് ആണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുവോ നമ്മൾ ഇടതുവശം rm ൽ നടപ്പിലാക്കുന്നു തുടർന്ന് അടുത്തത് അതിനാൽ നമുക്ക് ഇവിടെ ഒരു സെഗ്മെന്റ് ഉണ്ട് നമുക്ക് ഇവിടെ ഒരു സെഗ്മെന്റ് കൂടിയുണ്ട് ആദ്യ സമവാക്യം ഈ പോയിന്റ് എടുക്കും രണ്ടാമത്തെ സമവാക്യം ഈ പോയിന്റ് എടുക്കും എന്നാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല പരിഹാരം സുഗമമായി മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നന്നായി പെരുമാറാമെന്നും അതെല്ലാം അറിയാം പക്ഷേ പരിഹാരം എല്ലായിടത്തും തുടർച്ചയായി ഒരു വോൾട്ട് ആണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല വിദ്യാർത്ഥി 1 വോൾട്ട് ഞാൻ മതി 1 വോൾട്ട് വയറിലെ ഓരോ പോയിന്റിലും നൽകിയിരിക്കുന്ന വോൾട്ടേജ് നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി എന്നാൽ നമ്മൾ അറിയുന്നത് വർദ്ധിപ്പിക്കുന്നു n കൂടുന്തോറും നമ്മൾ അതിനോട് അടുക്കുകയാണ് അതിനാൽ നല്ല അടിസ്ഥാന ഫംഗ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നതിൽ N സ്ഥിരമായി നിലനിർത്തുന്നത് നിങ്ങൾക്ക് ശരിയായി ചെയ്യാൻ കഴിയുന്ന മികച്ച എന്തെങ്കിലും ഉണ്ടെന്നാണ് എന്റെ ചോദ്യം അതിനാൽ ഉത്തരം അതെ എന്നാണ് അതാണ് നിമിഷങ്ങളുടെ രീതി ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനാൽ നമ്മൾ ഇവിടെ ചെയ്തത് അടിസ്ഥാനപരമായി നമ്മൾ അവിഭാജ്യ സമവാക്യം വിവേചനം ചെയ്യുകയും അത് ശരിയായി പരിഹരിക്കുകയും ചെയ്തു അതിനാൽ ഈ സമീപനത്തിലെ പ്രധാന പ്രശ്നം rm വലത് ഒഴികെയുള്ള പോയിന്റുകളിൽ V എന്നത് V0 ന് തുല്യമാണ് അതിനാൽ കൂടുതൽ ശക്തമായ രീതിയെ നിമിഷങ്ങളുടെ രീതി എന്ന് വിളിക്കുന്നു മൊമെന്റുകളുടെ ഈ രീതി യഥാർത്ഥത്തിൽ ഇത് വളരെ പൊതുവായ ഒരു പദമാണ് അതിൽ സമഗ്ര സമവാക്യ രീതികൾ ഉൾപ്പെടുന്നു അതിൽ പരിമിതമായ മൂലക രീതികളും ഉൾപ്പെടുന്നു അതിനാൽ ഇത് എഞ്ചിനീയറിംഗിലുടനീളം കാണപ്പെടുന്നു